നമസ്കാരം ഇന്നത്തെ ലെക്ച്ചറിൽ നമ്മൾ രണ്ട് സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യും ഇവയാണു റസിപ്രോസിറ്റി കോമ്പൻസേഷൻ സിദ്ധാന്തങ്ങൾ അപ്പോൾ നമുക്ക് റസിപ്രോസിറ്റി സിദ്ധാന്തം വെച്ച് തുടങ്ങാം അപ്പോൾ എന്താണ് റസിപ്രോസിറ്റി സിദ്ധാന്തം അടിസ്ഥാനപരമായി പറയുന്നത് റസിപ്രോസിറ്റി സിദ്ധാന്തത്തിന് ഒരു പ്രധാനപ്പെട്ട സ്വഭാവം ഉള്ളത് എന്താണെന്നുവെച്ചാൽ ഇത് എല്ലാ നെറ്റ്വർക്കിലും പാലിക്കപ്പെടുകയില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റസിപ്രോസിറ്റി സിദ്ധാന്തം കൈകാര്യം ചെയ്യുമ്പോൾ കൂടാതെ നമ്മൾ ഓർമിച്ചു കൊണ്ടേയിരിക്കണം റസിപ്രോസിറ്റി സിദ്ധാന്തത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ള പരിമിതികൾ കാരണം നമ്മൾ അവ പാലിച്ചില്ലെങ്കിൽ റസിപ്രോസിറ്റി സിദ്ധാന്തം നമ്മൾ തെറ്റായി ഉപയോഗിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ തെറ്റായ പരിണതഫലം സർക്യൂട്ടിൽ കൊണ്ടുവരുത്തും ഈ ലെക്ച്ചറിൽ നമ്മൾ വിശദമാക്കുന്നത് റസിപ്രോസിറ്റി സിദ്ധാന്തം എന്ത് ആണെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഉദാഹരണം എടുക്കുന്നു ഇനി എന്താണ് റസിപ്രോസിറ്റി സിദ്ധാന്തം എന്ന് നോക്കാം സിദ്ധാന്തം പറയുന്നത് ഒരു ഈ എം എഫ് E ഈ എം എഫ് വേറൊന്നുമല്ല പക്ഷേ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഈ ഒരു റേസിപ്രോക്കൽ നെറ്റ്വർക്കിംഗ് ശിഖരത്തിൽ ഉള്ള ഒരു കറണ്ട് I വേറൊരു ശിഖരത്തിൽ പുറപ്പെടുവിക്കും എന്നിട്ട് ഈ എം എഫ് ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തെത്തിലേക്ക് നീങ്ങിയാൽ ഇത് അതേ കറണ്ട് തന്നെ ആദ്യത്തെ ശിഖരത്തിലും അതായത് ഈ എം എഫ് ഷോർട്ട് സർക്യൂട്ട് ആയി മാറ്റിവെച്ച ആ ശിഖരത്തിൽ തന്നെ സൃഷ്ടിക്കും ഈ നിർവചനം ഒരു സർക്യൂട്ട് വെച്ചു മനസ്സിലാക്കാം സങ്കൽപ്പിക്കുക നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ സർക്യൂട്ട് ഉണ്ടെന്ന് അവിടെ വോൾട്ടേജ് സ്രോതസ്സ് E നോഡ് എയുടെയും ബി യുടെയും ഇടയിൽ സന്നിഹിതമാണെന്ന് എന്നിട്ട് ഇത് കറണ്ട് I റസിസ്റ്ററിലൂടെ പ്രവഹിക്കാൻ കാരണമാകുന്നു നോഡ് എ യുടെയും ബിയുടെയും കൂടെ വോൾട്ടേജ് സ്രോതസ്സ് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ സർക്യൂട്ട് ഉത്തേജിക്കപ്പെടും കറണ്ട് ഈ ശിഖയിലൂടെ പ്രവഹിക്കും അതായത് നമ്മൾ സങ്കൽപ്പിക്കുകയാണ് ഈ കറണ്ട് I അപ്പോൾ റസിപ്രോസിറ്റി സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കറണ്ടിന്റെയോ വോൾട്ടേജ് സ്രോതസ്സ് E ന്റെയോ സ്ഥാനം മാറ്റുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ സർക്യൂട്ടിലെ മറ്റുള്ള മൂല്യങ്ങൾ മാറുവാൻ പോകുന്നില്ല അപ്പോൾ ഇതിൻറെ അർത്ഥം എന്താണ് ഇതിൻറെ അർത്ഥം എന്താണെന്നുവെച്ചാൽ നമ്മൾ E യുടെ മൂല്യം മാറ്റിവയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറ്റിവയ്ക്കുക നമ്മൾ രണ്ടിന്റെയും സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റിവയ്ക്കും E ആണ് ഘടകം ഒന്ന് അതായത് വോൾട്ടേജ് സ്രോതസ്സ് 2 ഈ ശിഖരത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ആണ് അപ്പോൾ വോൾട്ടേജ് സ്രോതസ്സ് കറണ്ടിന്റെ സ്ഥലത്ത് വെച്ചാൽ നമ്മൾ ഉറപ്പുവരുത്തണം വോൾട്ടേജ് സ്രോതസ്സിന്റെ ധ്രുവത്വം ഏത് ദിശയിൽ വരുമെന്ന് വെച്ചാൽ അത് സർക്യൂട്ടിലേക്ക് പവർ വരുന്ന അതേ ദിശയിൽ തന്നെ വരും മുൻപ് കറണ്ട് ഏതു ദിശയിൽ ആയിരുന്നോ അതിൽ അപ്പോൾ അതിനാലാണു നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ സി ഡി യുടെ ഇടയ്ക്ക് ഇ യുടെ ധ്രുവത്വം മുകളിൽ മൈനസ് ആണ് താഴെ പ്ലസ് ഇത് ഉറപ്പുവരുത്തും അതായത് സ്രോതസ്സിൽ നിന്ന് പ്രവഹിക്കുന്ന കറണ്ട് അതേ ദിശയിൽ തന്നെ ആയിരിക്കും യഥാർത്ഥ സർക്യൂട്ട് ഉത്തേജിപ്പിച്ചപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ആ ശിഖരത്തിൽ വെക്കുമ്പോൾ അതായത് വോൾട്ടേജ് സ്രോതസ്സ് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ വളരെ ലളിതമായി നോഡ് എയും ബിയും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം കാരണം വോൾട്ടേജ് സ്രോതസ്സ് ഇപ്പോൾ ലഭ്യമല്ല അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടാകും അതേ കറണ്ട് തന്നെ എല്ലാ ശിഖരത്തിലേക്കും പ്രവഹിക്കും ബാക്കി എല്ലാ ഘടകങ്ങളും അതുപോലെതന്നെ വച്ചിട്ട് ഇതിൻറെ അർത്ഥം വോൾട്ടേജ് സ്രോതസ്സുകളെയും കറണ്ടിന്റെയും സ്ഥാനങ്ങൾ തമ്മിൽ നമുക്ക് കൈമാറ്റം ചെയ്യാം ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റസിപ്രോസിറ്റി സിദ്ധാന്തം സർക്യൂട്ട് ലീനിയർ ആകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ സർക്യൂട്ടിൽ ടൈം വേരിയിങ് ഘടകങ്ങൾ ഉണ്ടാകാൻ പാടില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റസിപ്രോസിറ്റി സിദ്ധാന്തം വ്യാഖ്യാനിക്കുക ആണെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സിന്റെയും കറണ്ട് സ്രോതസ്സിന്റെയും സ്ഥാനങ്ങൾ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്താൽ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന വോൾട്ടെജിന്റെയും കറണ്ടിന്റെയും അളവുകൾ അതുതന്നെയായിരിക്കും ഇനി നമ്മൾ ചർച്ച ചെയ്തതുപോലെ വോൾട്ടേജ് സ്രോതസ്സിന്റെ ധ്രുവത്വം കറണ്ട് ശിഖരത്തിന്റെ ദിശ ആയിട്ട് ഓരോ സ്ഥാനത്തിലും ഒരുപോലെ ആയിരിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ റസിപ്രോസിറ്റി സിദ്ധാന്തം ഒരു സ്രോതസ്സ് ഉള്ള നെറ്റ്വർക്കിൽ മാത്രമേ പ്രായോഗികമായി ഉള്ളൂ എന്നാണ് അപ്പോൾ കുറെ സ്രോതസ്സ്കൾ ഉള്ള നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റസിപ്രോസിറ്റി സിദ്ധാന്തം അവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈയൊരു പരിമിതി നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ റസിപ്രോസിറ്റി സിദ്ധാന്തം നമ്മൾ തെറ്റായി ഉപയോഗിക്കും ഇനി ഇത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ സിദ്ധാന്തം വ്യക്തമാണ് ഈ ചിത്രത്തിൽ അതിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സർക്യൂട്ട് നോക്കാം ഒരു വോൾട്ടേജ് സ്രോതസ്സ് 45 വോൾട്ട് കറണ്ട് തരുന്നു കൂടാതെ 4 റെസിസ്റ്റൻസ് നിങ്ങൾ സർക്യൂട്ടിൽ കാണുന്നതുപോലെ ഇനി നമുക്ക് തെളിയിക്കണം I യുടെയും E യുടെയും സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റിയാൽ കറണ്ട് I യുടെ മൂല്യം മാറില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളാദ്യം I യുടെ മൂല്യം എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിക്കും ഈ വ്യവസ്ഥയിൽ അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ടിലെ തുല്യത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം സർക്യൂട്ടിലെ തുല്യത റെസിസ്റ്റൻസ് അപ്പോൾ നമുക്ക് സർക്യൂട്ടിലെ മൊത്തമായി റെസിസ്റ്റൻസ് 15 ഓം ആയി കിട്ടി അപ്പോൾ നമുക്ക് കറണ്ട് ന്റെ മൂല്യം കണ്ടുപിടിക്കാം അപ്പോൾ കറണ്ട് ഇനി നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ നിയമം ഉപയോഗിക്കാം കാരണം കറണ്ട് ഇവിടെ രണ്ടായി ആണ് ഭാഗികപ്പെടുന്നത് അതിനാൽ ഇതിലേക്ക് പ്രവഹിക്കുന്ന കറണ്ട് റെസിസ്റ്റൻസിന്റെ മൂല്യം റെസിസ്റ്റൻസിന്റെ മൊത്തതുകയുടെ ഹരണമായിരിക്കും അപ്പോൾ നിങ്ങൾ കാണും ഇനി റസിപ്രോസിറ്റി സിദ്ധാന്തം തെളിയിക്കുവാനായി നമ്മൾ എന്ത് ചെയ്യും E യുടെയും I യുടെയും സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റി വെയ്ക്കും അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും സർക്യൂട്ടിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഭേദഗതി വരുത്തും അവിടെ ഇതിൻറെ ദിശ താഴേക്ക് കാണാം അപ്പോൾ മൈനസ് ചിഹ്നം മുകളിൽ ആണ് പ്ലസ് ചിഹ്നം താഴെയും കറൻറ് ഈ ദിശയിലായിരിക്കും പ്രവഹിക്കുന്നത് ഐയുടെ ദിശയിൽ തന്നെ അതായത് മുന്നത്തെ ചിത്രത്തിലേതുപോലെ ഇനി വോൾട്ടേജ് സ്രോതസ്സിൻറെ സ്ഥാനം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സങ്കല്പിച്ച ഈ കേസിലെ പോലെ തന്നെ കറണ്ട് I പ്രവഹിക്കുന്നത് മുന്നത്തെ കേസിലെ പോലെത്തന്നെ സർക്യൂട്ടിന്റെ ഷോർട്ട് സർക്യൂട്ട് ഭാഗത്തിലൂടെയാണ് ഇനി നമുക്ക് തെളിയിക്കണം I യുടെ മൂല്യം വീണ്ടും 1 5 ആംപിയർ ആയിരിക്കും സർക്യൂട്ട് റസിപ്രോസിറ്റി സിദ്ധാന്തം പ്രകാരം ഭേദഗതി വരുത്തുമ്പോൾ ഇനി വീണ്ടും നോക്കിയാൽ എന്തായിരിക്കും തുല്യത റെസിസ്റ്റൻസിന്റെ മൂല്യം

ഈ കേസിൽ എന്താണ് ന്റെ മൂല്യം അതായത് സ്രോതസ്സ് കറണ്ട് നമുക്ക് 45 വോൾടേജ് സ്രോതസ്സിന്റെ മൂല്യം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കു കിട്ടിയിട്ടുള്ള റസിസ്റ്റൻസ് അതായത് സ്രോതസ്സിനെ ഈ വശത്തുനിന്ന് കാണുന്നത് അതിനാൽ കറണ്ട് സ്രോതസ്സിന്റെ മൂല്യം നിർണയിക്കുമ്പോൾ അത് 4 5 ആംപിയർ ആയി കിട്ടും ഇനി കറണ്ട് ഡിവിഷൻ വ്യവസ്ഥ വെച്ച് നിങ്ങൾക്കു വീണ്ടും കറണ്ട് I യുടെ മൂല്യം കണ്ടുപിടിക്കാം

ഇപ്പോൾ നമുക്ക് കാണാം ഈ രണ്ടു കേസിലും I കറണ്ട് തുല്യമാണെന്ന് അതിന്റെ അർത്ഥം നമുക്ക് പറയാം റസിപ്രോസിറ്റി സിദ്ധാന്തം ഈ സർക്യൂട്ട് സമർത്ഥിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഭേദഗതി വരുത്തിയ സർക്യൂട്ട് നമ്മൾ വോൾടേജ് സ്രോതസ്സിനെ സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത കറണ്ടിന്റെ അതേ ദിശയിൽ വരുന്ന രീതിയിലാണ് അവിടെ വോൾട്ടേജ് സ്രോതസ്സുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഐ യുടെ മൂല്യം ഒന്നാണ് മുന്നത്തെ കേസിലെ പോലെ തന്നെ അതിനാൽ റസിപ്രോസിറ്റി സിദ്ധാന്തം ഈ കേസിൽ പ്രായോഗികം ആണെന്നാണ് സമർത്ഥിക്കുന്നത് ഇനി നമുക്ക് വേറൊരു സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് കോമ്പൻസേഷൻ സിദ്ധാന്തം കോമ്പൻസേഷൻ സിദ്ധാന്തവും നെറ്റ്വർക്ക് വിശകലനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഇത് പ്രായോഗികം ആകുന്നത് കൂടുതലായും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻറെ സെൻസിറ്റിവിറ്റി നിർണയിക്കാൻ ആണ് സെൻസിറ്റിവിറ്റി എന്നാൽ നമ്മൾ വോൾട്ടേജിന്റെ മൂല്യം ചെറുതായിട്ട് മാറ്റിയാൽ അതായത് കറണ്ട് എത്ര ആയിരിക്കും ആ ഭാഗത്ത് മാറുന്നത് അതായത് നമ്മൾ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഇടത്തു അപ്പോൾ ഇത് സെൻസിറ്റിവിറ്റിയുടെ മൂല്യം ആ സർക്യൂട്ട് ഘടകത്തിൽ തരും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഭാഗത്ത് കോമ്പൻസേഷൻ സിദ്ധാന്തം എന്നാൽ എന്താണ് ഒരു സർക്യൂട്ടിലെ കറണ്ട് മാറുന്നതിന്റെ യുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ഇതിനെ മാറ്റി വെയ്ക്കുന്നത് കൂടുതലായുള്ള വോൾടേജ് സ്രോതസ്സുമായി സീരിസിൽ വെച്ചിട്ടാണ് അതായത് യഥാർത്ഥ കറണ്ട് സംയുക്തം ആയി വെച്ചിട്ട് കൂടാതെ റെസിസ്റ്റൻസ് എല്ലാ സ്രോതസ്സുകളും സർക്യൂട്ടിന്റെ തുല്യത ഇമ്പിഡൻസും ആയിട്ട് മാറ്റി വെച്ചിട്ടാണ് ഇതിൻറെ അർത്ഥം എന്താണ് സങ്കൽപ്പിക്കുക നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് ഈ നെറ്റ്വർക്കിന്റെ 2 ടെർമിനലിൽ ലോഡ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻറെ മൂല്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അ മുഴുവൻ സർക്യൂട്ടും തെവനിയൻ തുല്യത ആയി മാറ്റിവയ്ക്കാൻ സാധിക്കും അതായത് നമ്മൾ തെവനിയൻ സിദ്ധാന്തം ചർച്ച ചെയ്തപ്പോൾ ഇത് കണ്ടതാണ് അതിനാൽ 2 ടെർമിനൽ ഉള്ള നെറ്റ്വർക്ക് തെവനിയൻ തുല്യത ആയി മാറ്റി വയ്ക്കാൻ പറ്റും അതിനാൽ ഇവിടെ നമ്മൾ നെറ്റ്വർക്കിൽ തെവനിയൻ തുല്യത കണ്ടുപിടിച്ചു ഇനി സങ്കല്പിക്കുക ലോഡ് ന്റെ മൂല്യത്തിൽ മാറ്റമുണ്ട് എന്ന് അനുസൃതമായി ആ കേസിൽ എന്തു സംഭവിക്കും നവീകരിച്ച റെസിസ്റ്റൻസിന്റെ മൂല്യം അതായത് ലോഡ് കറണ്ടിൽ മാറ്റം വരുത്തും മുന്നേ അത് ലോഡ് കറണ്ട് ആയിരുന്നു അതിപ്പോൾ ആയി അപ്പോൾ വേറൊന്നുമല്ല പക്ഷെ ക്കു തുല്യം അപ്പോൾ യുടെ മാത്രം അനന്തരഫലംകാണണമെങ്കിൽ തുല്യമായ സർക്യൂട്ട് ചിത്രീകരിക്കാം അതായത് പുതിയ വോൾടേജ് സ്രോതസ്സ് നമ്മൾ കണ്ടത് അതായത് കറണ്ട് പ്രവഹിക്കുന്ന ദിശയുടെ എതിര് മൂല്യം സീരിസിൽ ആയിട്ടു ഘടിപ്പിച്ചിരിക്കും ഇനി ഇപ്പോൾ കറണ്ട് പ്രവഹിക്കുന്നതിന്റെ മൂല്യം യുടെ മൂല്യം നമ്മൾ വോൾടേജ് സ്രോതസ്സിൽ കാണുന്നത് ആയിരിക്കും ഇനി കോമ്പൻസേഷൻ സിദ്ധാന്തം വീണ്ടും നോക്കിയാൽ നിങ്ങൾക്കു വളരെ എളുപ്പത്തിൽ കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കാവുന്നതാണ് യുടെ മൂല്യം അപ്പോൾ ഈ മൂല്യം നിങ്ങൾക്ക് നവീകരിച്ച സർക്യൂട്ടിൻറെ സഹായത്തോടെ നിർണയിക്കാം കോമ്പൻസേഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് യുടെ അനന്തരഫലം കാണാം റെസിസ്റ്റൻസ് ന്റെ മാറ്റം കാരണം ഇതാണ് കോമ്പൻസേഷൻ സിദ്ധാന്തം പറയുന്നതും കറണ്ടിന്റെ മാറ്റം ഈ സർക്യൂട്ടിൽ കണ്ടുപിടിക്കാൻ റെസിസ്റ്റൻസ് കൂട്ടി ചേർത്തത് ആയിട്ട് മാറ്റി വെക്കാം അതായത് റെസിസ്റ്റൻസ് കൂട്ടി ചേർത്തത് വോൾടേജ് സ്രോതസ്സ് ആയിട്ട് സീരീസ് കൂട്ടുകെട്ടിൽ അപ്പോൾ ഇതാണ് വോൾടേജ് സ്രോതസ്സ് റെസിസ്റ്റൻസും റെസിസ്റ്റൻസ് യഥാർത്ഥ റെസിസ്റ്റൻസു ആയി ഊനം തട്ടാത്ത രീതിയിൽ ആയിരിക്കും ആയിരിക്കും പരിഷ്കരിച്ച റെസിസ്റ്റൻസ് കൂടാതെ സർക്യൂട്ടിലെ എല്ലാ സ്രോതസ്സുകളും അതിനു തുല്യമായ ഇമ്പിഡെൻസ് ആയി മാറ്റി വെയ്ക്കും അതിൻറെ അർത്ഥം യഥാർത്ഥ തെവനിയൻ വോൾടേജ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറ്റിവയ്ക്കും നമുക്കൊരു കറണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കു എല്ലാ റസ്റ്റൻറ്സ് മൂല്യവും സർക്യൂട്ടിൽ വച്ചിട്ട് അപ്പോൾ തുല്യമായ റസിസ്റ്റൻസ് മൂല്യം സർക്യൂട്ടിൽ ആണ് ഇത് സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട് ഈ സമ്പ്രദായം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ന്റെ മൂല്യം കണ്ടുപിടിക്കാം അതായത് വീട്ടിലേക്ക് പ്രവഹിക്കുന്നത് കാരണം റെസിസ്റ്റൻസ് മൂല്യം ഇതിൽ നിന്ന് ലേക്ക് മാറ്റപ്പെടും അപ്പോൾ ഇതാണ് കോമ്പൻസേഷൻ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഇനി നമുക്ക് മനസ്സിലാക്കുകയും സമർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് വോൾടേജ് സ്രോതസ്സിന്റെ മൂല്യം കോമ്പൻസേഷൻ സിദ്ധാന്തം തരും അത് വേറൊന്നുമല്ല പക്ഷെ യുടെ മൂല്യം നമ്മൾ കണ്ടത് കൂടാതെ ക്രമീകരണം നോക്കുക ഇത് യഥാർത്ഥ കറണ്ടിനെ ചെറുത്തുനിൽക്കും മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം ഏതു നെറ്റ്വർക്കിലെയും റെസിസ്റ്റൻസ് അതെ വോൾടേജ് ഉള്ള വോൾടേജ് സ്രോതസ്സ് ആയിട്ട് മാറ്റിവെയ്ക്കാം എന്ന് റെസിസ്റ്റൻസിനു കുറുകെ ഉള്ള വോൾടേജ് ഡ്രോപ്പ് ആണ് മാറ്റി വെയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസിലെ മാറ്റം അതായത് നോക്കിയാൽ നു കുറുകെ ഉള്ള വോൾടേജ് ഡ്രോപ്പ് വേറൊന്നുമല്ല പക്ഷെ ആണ് അതിനാലാണ് ഇതിനെ തുല്യതാ വോൾട്ടേജ് സ്രോതസ്സ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം നമ്മൾ പരിഷ്കരിച്ച് സർക്യൂട്ട് നമ്മൾ ഇപ്പോൾ നിർണയിച്ച അവകാശം ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സങ്കൽപിക്കാം ലോഡ് ഡിസി സ്രോതസ്സ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ഒരു സ്രോതസ്സ് ഉണ്ട് ലോഡ് അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ തെവനിയൻ സിദ്ധാന്തം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു ഈ സർക്യൂട്ട് അതിന്റെ വോൾടേജ് തുല്യത അതായത് തെവനിയൻ റെസിസ്റ്റൻസ് സീരിസിൽ ഉള്ളത് ആയിട്ട് മാറ്റി വെയ്ക്കാം അപ്പോൾ ഈ സർക്യൂട്ട് തുല്യതാ സർക്യൂട്ട് ആയിട്ട് മാറ്റിവയ്ക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ടെർമിനൽ എ ബി ക്കു കുറുകെ ലോഡ് ഘടിപ്പിച്ചിരിക്കുന്നു ഇനി ന്റെ മൂല്യം നിർണ്ണയിക്കുക ആണെങ്കിൽ അത് ഇതാണ് നമുക്ക് കിട്ടിയത് വേറൊന്നുമല്ല പക്ഷെ തെവനിയൻ റെസിസ്റ്റൻസ് ഇനി നമുക്ക് നോക്കാം ലോഡ് റെസിസ്റ്റൻസിന്റെ മൂല്യം നമ്മൾ മാറ്റിയാൽ ൽ നിന്ന് ലേക്ക് സർക്യൂട്ടിന്റെ ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തെവനിയൻ തുല്യത നെറ്റ്വർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇനി എന്തു സംഭവിക്കും സർക്യൂട്ടിലെ ബാക്കി ഘടകങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് അതിനാൽ തെവനിയൻ തുല്യതക്കു മാറ്റമൊന്നുമില്ല തെവനിയൻ തുല്യത അതുപോലെ തന്നെ ആയിരിക്കും ഒരേ ഒരു മാറ്റം സിദ്ധാന്തം ലോഡ് റെസിസ്റ്റൻസിനു ആയിരിക്കും അതായത് ഇപ്പോൾ കറണ്ട് ഇപ്പോൾ നവീകരിച്ച ലോഡ് റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്നത് ആണ് ന്റെ മൂല്യം എന്തായിരിക്കും ഇനി കോമ്പൻസേഷൻ സിദ്ധാന്തം പ്രയോഗിക്കും വോൾടേജ് സ്രോതസ്സ് അകത്തെ റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റി വെയ്ക്കും പിന്നെ വേറെ ഒരു വോൾടേജ് സ്രോതസ്സ് വെയ്ക്കും ഇപ്പോൾ കോമ്പൻസേഷൻ സിദ്ധാന്തം പ്രകാരം നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും അതായത് വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ടും ഇത് നെറ്റ്വർക്കിൽ ഉണ്ട് ഈ കേസിൽ അത് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വോൾട്ടേജ് സ്രോതസ്സ് Vth ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻറെ മൂല്യം അപ്പോൾ ഇവിടത്തെ അളവ് ഇങ്ങനെ ആയിരിക്കും പക്ഷേ ഇത് എതിർദിശയിൽ ആയതിനാൽ ഇത് നെഗറ്റീവ് ആകും ഇത് നമ്മൾ അവസാനത്തെ അവസ്ഥ കണ്ടുപിടിക്കുമ്പോൾ കാണാം ഇപ്പോൾ നമുക്ക് സങ്കൽപ്പിക്കാം മൂല്യം മാറ്റം വന്നതാണെന്ന് ആണ് നവീകരിച്ച കറൻറ് മൂല്യം കൂട്ടിച്ചേർത്തതാണ് ആണ് യഥാർത്ഥ കറണ്ട് ന്റെയും ന്റെയും മൂല്യം മുകളിലത്തെ സമവാക്യത്തിൽ പകരം വെച്ചാൽ നമുക്ക് കിട്ടും

ഇനി നമ്മൾ ലളിതമാക്കി നമ്മൾ രണ്ട് ഭിന്നസംഖ്യാഛേദത്തിന്റെയും ഗുണനഫലം എടുത്താൽ ഇതിവിടെ പ്രയോഗിച്ചാൽ ഇത് ഈ സ്ഥലത്തും എന്നിട്ട് ലളിതമാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിനാൽ അപ്പോൾ ഇത് വെച്ചു നമ്മൾ കണ്ടുപിടിച്ചു എന്തായിരിക്കും യുടെ മൂല്യമെന്ന് ന്റെ മൂല്യത്തിൽ മാറ്റം വന്നപ്പോൾ

ഇത് നമുക്ക് സർക്യൂട്ടിൽ നിന്ന് നേരിട്ട് കാണാം ഇതാണ് നമ്മൾ കണ്ടു പിടിച്ചത് കറണ്ടിൽ വന്നിട്ടുള്ള മാറ്റത്തിൻറെ മൂല്യം വെച്ച് അതായത് അപ്പോൾ ഇത് സമർത്ഥിക്കുന്നു കോമ്പൻസേഷൻ സിദ്ധാന്തം പാലിച്ചാൽ വോൾടേജ് സ്രോതസ്സ് നേരിട്ട് നമുക്ക് മാറ്റി വെയ്ക്കാം നേരിട്ടു വോൾടേജ് സ്രോതസ്സ് സീരീസിൽ ആയിട്ട് റെസിസ്റ്റർ വെക്കുക എവിടെ എന്നുവച്ചാൽ ഈ കേസിൽ റെസിസ്റ്ററിനു മാറ്റം വന്നിടത്തു അതായത് ΔR അപ്പോൾ നമ്മൾ വച്ച വോൾട്ടേജ് സ്രോതസ്സ് യഥാർത്ഥ കറണ്ടും അതിനെ നവീകരിച്ച റെസിസ്റ്ററിൽ ഉള്ള മാറ്റവും കൂടി ഗുണനം ചെയ്തു അതിനോട് തുല്യമായിരിക്കും അതായത് ΔR അതെ സമയം നെറ്റ്വർക്കിലെ മറ്റെല്ലാ വോൾട്ടേജ് സ്രോതസ്സുകളും വയ്ക്കണം അതിൻറെ അർത്ഥം സർക്യൂട്ടിൽ ഉള്ള വോൾടേജ് സ്രോതസ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമെന്നാണ് അപ്പോൾ ഡെറിവേഷനിലേക്ക് പോകാതെ നമുക്ക് ലളിതമായി സർക്യൂട്ടിലെ മാറ്റം ഉപയോഗിക്കാം അതായത് ΔR ലെ മാറ്റം എന്നിട്ട് നേരിട്ട് നമുക്ക് നവീകരിച്ച വോൾടേജ് സ്രോതസ്സായി ഇതിനെ മാറ്റിവയ്ക്കാം അപ്പോൾ നമുക്ക് എന്തു പറയാം നമുക്ക് പറയാം കോമ്പെസേഷൻ സിദ്ധാന്തം അടിസ്ഥാനപരമായി താഴെ പറയുന്നതുപോലെ ചുരുക്കിയിരിക്കുന്നു എന്ന് അതായത് ശിഖിരത്തിൽ ഉള്ള റസിസ്റ്റൻസ് മാറ്റം കറണ്ടിന്റെ മാറ്റം കൂടാതെ ഒരു യഥാർത്ഥ കോംപെൻസേറ്റിങ് വോൾടേജ് സ്രോതസ്സിനു തുല്യം ആയിട്ടുള്ള മാറ്റം അതായത് അത് സീരിസിൽ യഥാർത്ഥ കറണ്ടിന് എതിർ ആണ് ബാക്കി എല്ലാ സ്രോതസ്സുകളും നെറ്റ്വർക്കിൽ അകത്തുള്ള റസിസ്റ്റൻസ് ആയി മാറ്റി വെയ്ക്കപ്പെടാം അതിനാൽ അതിൻറെ അകത്തുള്ള നെറ്റ്വർക്കിലെ റസിസ്റ്റൻസ് വേറൊന്നുമല്ല പക്ഷേ ആണ് അതിനാൽ അകത്തുള്ള റെസിസ്റ്റൻസ് ആയിട്ട് മാത്രം ആണ് സ്രോതസ്സുകൾ മാറ്റി വെയ്ക്കുന്നത് ഇത് നിങ്ങൾക്ക് സമർത്ഥിക്കാം കോമ്പൻസേഷൻ സിദ്ധാന്തം നേരിട്ട് ഒരു ലീനിയർ സർക്യൂട്ടിൽ പ്രയോഗിക്കാം നവീകരിച്ച വോൾടേജ് സ്രോതസ്സ് റെസിസ്റ്റൻസ് ആയിട്ട് സീരിസിൽ വെച്ചിട്ട് അവിടെ ആണ് Δ യുടെ മാറ്റം സംഭവിക്കുന്നതു എന്നിട്ട് നേരിട്ട് മൂല്യം കണ്ടുപിടിക്കുക കറണ്ടിന്റെ മൂല്യത്തിൽ ഉള്ള മാറ്റം നേരിട്ട് നവീകരിച്ച സർക്യൂട്ടിന്റെ സഹായത്തോടെ അപ്പോൾ ഇത് വെച്ചു നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ സെഷനിൽ നമ്മൾ 2 സിദ്ധാന്തം ചർച്ച ചെയ്തു അടുത്ത ആഴ്ച നമ്മൾ കോഴ്സിലെ ചില പുതിയ വിഷയങ്ങൾ വെച്ച തുടങ്ങും അതായത് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്